അതിനാൽ കഴിഞ്ഞ കുറച്ച് പ്രഭാഷണങ്ങളിൽ ഞങ്ങൾ സംസാരിക്കുന്നത് ക്ലോക്കിംഗിനെക്കുറിച്ചും ഒരു ഡിസൈനിൽ ഉണ്ടാകാനിടയുള്ള വിവിധ സമയ പ്രശ്നങ്ങളെക്കുറിച്ചും ഹോൾഡ് ടൈം സ്ക്യൂ സെറ്റപ്പ് സമയംമുതലായ ചില നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് ശരിയായ പ്രവർത്തന സംവിധാനം ഇന്ന് ഈ ആഴ്ചയിൽ യഥാർത്ഥത്തിൽ ടൈം ക്ലോഷെറിനെ കുറിച്ചുള്ള ഞങ്ങളുടെ ചർച്ച ഞങ്ങൾ ആരംഭിക്കും ടൈം ക്ലോഷർ എന്നതിനർത്ഥം ഞങ്ങൾക്ക് ചില ആവശ്യകതകൾ ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു എന്നാണ് പ്രത്യേകതകളിൽ നിന്ന് വന്നതാകാം ഏതുതരം സമയ സ്വഭാവമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ഞങ്ങൾ രൂപകൽപ്പന ചെയ്യുന്ന സർക്യൂട്ടിൽ നിന്ന് എന്താണ് വേണ്ടത് പക്ഷേ അത് സാധ്യമാകുമ്പോൾ നെറ്റ് ലിസ്റ്റ് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഞങ്ങൾ സ്ഥാപിക്കുമ്പോൾ ബ്ലോക്കുകൾ ഇന്റർകണക്ഷൻ നെട്സ് എന്നിവ വഴിതിരിച്ചുവിട്ടാൽ ആ സമയ നിയന്ത്രണങ്ങളിൽ ചിലത് ലംഘിക്കപ്പെടാം ഏതൊരു നിയന്ത്രണവും ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് അതിവേഗത്തിൽ എങ്ങനെ വിലയിരുത്താം എന്തെങ്കിലും ലംഘനം കണ്ടാൽ നമുക്ക് സ്വീകരിക്കാവുന്നതോ സ്വീകരിക്കാവുന്നതോ ആയ നടപടികൾ എന്തെല്ലാമാണെന്ന് ആ സമയക്രമങ്ങൾ വിശാലമായി പറയുന്നു അതിനാൽ അടുത്തയാഴ്ച ഇത് ഞങ്ങളുടെ ചർച്ചാവിഷയമാണ് അതിനാൽ ഒരു ചിപ്പിന്റെ ലേഔട്ട് സൃഷ്ടിക്കുമ്പോൾ കാണുക അതിനാൽ ചിപ്പിന്റെ ലേഔട്ട് സൃഷ്ടിക്കപ്പെട്ടുവെന്ന് ഞാൻ പറയുമ്പോൾ അത് മുഴുവൻ ബാക്ക് എൻഡ്ഡിസൈൻപ്രക്രിയയിലൂടെയാണ് അതിനാൽ ഫ്രണ്ട് എൻഡ് ഡിസൈനിൽനിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന നെറ്റ്ലിസ്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് സർക്യൂട്ട് പാർട്ടീഷനിംഗ്നടത്താം തുടർന്ന് ഞങ്ങൾക്ക് ഫ്ലോർ പ്ലാനിംഗും പ്ലെയ്സ്മെന്റും റൂട്ടിംഗും തുടർന്ന് അവസാന ലേഔട്ട്ചെയ്യാം ഇതാണ് ചിപ്പിന്റെ അവസാന ലേ ഔട്ട് പോലെ ലേഔട്ട് 2 നിയന്ത്രണങ്ങൾ തൃപ്തിപ്പെടുത്തണം ഒന്നാമത്തേത് ജ്യാമിതീയ പരിമിതികൾ എന്നറിയപ്പെടുന്നു ഇവയാണ് ഞങ്ങൾ പിന്നീട് കുറച്ച് വിശദമായി ചർച്ച ചെയ്യുന്നത് ജ്യാമിതീയ പരിമിതികൾ പറയുന്നത് ഈ കോശങ്ങൾ അവ്യക്തമായി ഓവർലാപ്പുചെയ്യാത്തതായിരിക്കണം കൂടാതെ റൂട്ടബിലിറ്റിക്ക്ഇടയിൽ മതിയായ ഇടം ഉണ്ടായിരിക്കണം ജ്യാമിതീയ പരിമിതികൾ പറയുമ്പോൾ അത് കോശങ്ങളോ ബ്ലോക്കുകളോ മാത്രമല്ല ചിപ്പിന്റെ അന്തിമ ലേഔട്ട് പരിഗണിക്കുമ്പോൾ അതിന് ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് പോകാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ചിപ്പിന്റെ അവസാന ലേഔ ട്ടിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വ്യത്യസ്ത പാളികൾ ഉണ്ട് നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ അടിസ്ഥാന സവിശേഷതകൾ ചതുരാകൃതിയിലുള്ള പ്രദേശങ്ങൾ പോലെ കാണപ്പെടും കൂടാതെ ഈ പ്രദേശങ്ങൾ പോളിസിലിക്കൺ പാളി വ്യാപനം പാളി ലോഹം വിവിധ പാളികൾpolysilicon layer diffusion layer metal various layers of metalഎന്നിവയിൽ നിലനിൽക്കാം ലോഹവും മറ്റും അതിനാൽ ഒടുവിൽ നമുക്ക് ചില ചതുരാകൃതിയിലുള്ള പ്രദേശങ്ങളുണ്ട് അതിനാൽ ഈ പാളിയിൽ ഉണ്ടാകാനിടയുള്ള ചില നിയന്ത്രണങ്ങൾ പോലെയാകാം എനിക്ക് 2 വരികളുണ്ടെന്ന് പറയാം ഇത് പരസ്പരം സമാന്തരമായി പ്രവർത്തിക്കുന്ന പരസ്പരബന്ധങ്ങളെ പ്രതിനിധാനം ചെയ്തേക്കാം 2 കാര്യങ്ങളുണ്ട് ഈ വരികളുടെ വീതി എന്താണ് കാരണം ഈ വരിയുടെ വീതി R1 R2 എന്നീ വരികളുടെ പ്രതിരോധം എന്തായിരിക്കുമെന്ന് നിർണ്ണയിക്കും രണ്ടാമതായി ഈ 2 വരികൾ തമ്മിലുള്ള വേർതിരിവ് ഈ 2 വരികളുടെ വേർതിരിവ് ഈ 2 പ്രവർത്തിക്കുന്ന വയറുകൾ തമ്മിലുള്ള കപ്പാസിറ്റൻസ് നിർണ്ണയിക്കും അതിനാൽ അടിസ്ഥാനപരമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് ഒരു നീണ്ട ട്രാൻസ്മിഷൻ ലിങ്ക്ഉള്ളപ്പോൾ ആർസി കാലതാമസം ചിത്രത്തിലേക്ക് വരുന്നു എൽമോർ കാലതാമസം മോഡൽപോലെ ഈ കാലതാമസം മാതൃകയാക്കാൻ ചില ഏകദേശ മാർഗങ്ങളുണ്ട് അതുപോലെ ഇവിടെയും ചില വയറുകൾ സ്ഥാപിക്കുമ്പോൾ ചില ആർസി കാലതാമസമുണ്ടാകാം ഈ കാലതാമസം തീർച്ചയായും വയറുകളുടെ വീതി ദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കും അതിനാൽ വയറുകളുടെ ദൈർഘ്യവും മറ്റേതെങ്കിലും സമാന്തര വയറിൽ നിന്നുള്ള വേർതിരിക്കലും എന്തായിരിക്കും അത് ഇന്റർ വയർ കപ്പാസിറ്റൻസ്ശരിയായി നിർണ്ണയിക്കും അതിനാൽ ഇത് സിസ്റ്റത്തിന്റെ ഈ സ്റ്റോറേജ് സെൽ ഉള്ളപ്പോൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകളോ ലാച്ചുകളോ ആണെന്ന് ഞങ്ങൾ നേരത്തെ സംസാരിച്ച ആദ്യ തരത്തിലുള്ള പരിമിതി ജ്യാമിതീയ പരിമിതി രണ്ടാമത്തെ തരത്തിലുള്ള പരിമിതി എന്നിവ ആയിരിക്കും അതിനാൽ ഈ സംഭരണ ഘടകങ്ങൾക്ക് ചില അന്തർലീനമായ സജ്ജീകരണങ്ങളും ഹോൾഡ് ആവശ്യകതകളും ഉണ്ടായിരിക്കും അതിനാൽ സജ്ജീകരണ സമയം എന്തായിരുന്നുവെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതിനാൽ ക്ലോക്ക് എഡ്ജ്എപ്പോൾ വരുമ്പോഴും അതിനുമുമ്പ് ഞാൻ എന്റെ ഇൻപുട്ട് സ്ഥിരതയുള്ളതാക്കണം അതാണ് സജ്ജീകരണ സമയം ക്ലോക്ക് എഡ്ജിന്ശേഷം ഹോൾഡ് ടൈംസ് പറയുന്നു എന്റെ ഡാറ്റ എത്രത്തോളം സുസ്ഥിരമായി സൂക്ഷിക്കണം അല്ലാത്തപക്ഷം ഫ്ലിപ്പ് ഫ്ലോപ്പ് തെറ്റായി പെരുമാറിയേക്കാം അതിനാൽ ഈ സജ്ജീകരണവും ഹോൾഡ് സമയങ്ങളും സ്റ്റോറേജ് ഘടകങ്ങളുടെ സവിശേഷതകളാണ് ഇവ ഡിസൈനർമാരുടെ നിയന്ത്രണത്തിൽ ഇല്ലാത്തവയാണ് ഉദാഹരണത്തിന് ക്ലോക്ക് ട്രീയുടെ ഡിഫറന്റ് ലേ ഔട്ട് ഉപയോഗിച്ച് ഡിസൈനർക്ക് ഒരു ക്ലോക്ക് സ്കേനിയന്ത്രിക്കാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന മറ്റ് സമയങ്ങൾ എന്നാൽ ഈ സജ്ജീകരണം ഹോൾഡ് ടൈമുകൾഎന്നത് ഒരു ഡിസൈനിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഈ സ്റ്റോറേജ് ഉപകരണങ്ങളുടെ സവിശേഷതകളാണ് അതിനാൽ ഈ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി ലക്ഷ്യമിടുന്ന മൊത്തത്തിലുള്ള ഒപ്റ്റിമൈസേഷൻപ്രക്രിയയെ വിശാലമായി അടുത്ത സമയമായി വിളിക്കുന്നു ഇപ്പോൾ ഇവിടെ നമ്മൾ പിന്നീട് കാണും അടുത്ത സമയം ഒരു നെറ്റ്ലിസ്റ്റ് നോക്കുക മാത്രമല്ല ജ്യാമിതീയവും സമയനിബന്ധനകളും പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളെ അനുവദിക്കുന്നു നിങ്ങൾക്ക് സമയബോധമുള്ള പ്ലെയ്സ്മെന്റും റൂട്ടിംഗ് സൊല്യൂഷനുകളുംലഭിക്കും അതിനാൽ നിങ്ങൾ ഒരു പ്ലെയ്സ്മെന്റ് സൃഷ്ടിക്കുന്നതിന് നിങ്ങളുടെ അന്തിമ സമയ പരിമിതികളോ ലക്ഷ്യങ്ങളോ കൈവരിക്കുന്ന ഒരു റൂട്ടിംഗ് നിങ്ങൾ സൃഷ്ടിക്കുന്നു അതാണ് ആധുനികത എന്ന് നിങ്ങൾക്ക് ഉയർന്ന പ്രകടന ചിപ്പ് അല്ലെങ്കിൽ സർക്യൂട്ടിന്റെ ബാക്ക് എൻഡ് ഡിസൈനിനുള്ള ആധുനിക ഡിസൈൻ ഫ്ലോഎന്ന് പറയാം അതിനാൽ ടൈം ക്ലോഷെറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്ലെയ്സ്മെന്റും റൂട്ടിംഗുംപ്രധാനപ്പെട്ട പാതകളാണെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ വിശാലമായി ഇവിടെ 3 കാര്യങ്ങൾ ഉണ്ട് തീർച്ചയായും പ്ലെയ്സ്മെന്റ് അതിനാൽ ബ്ലോക്കുകൾ എങ്ങനെ സ്ഥാപിക്കാം സിഗ്നൽ കാലതാമസം ഞങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സമയ പരിമിതികൾ പാലിക്കും ബ്ലോക്ക് പ്ലെയ്സ്മെന്റ് അന്തിമമാകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതിനുശേഷം മാത്രമേ ഞങ്ങൾക്ക് ചില യാഥാർത്ഥ്യവും കൃത്യവുമായ ഏകദേശ കണക്കുകൂട്ടലുകൾ നടത്താൻ കഴിയൂ നിങ്ങൾക്ക് ഇന്റർ കണക്ഷൻ കാലതാമസം ഗേറ്റ് കാലതാമസം അല്ലെങ്കിൽ സെൽ കാലതാമസംinterconnection delays the gate delays or the cell delaysമുതലായ കാലതാമസം കണക്കാക്കാൻ കഴിയും എന്നാൽ സ്ഥാനങ്ങൾ ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ കാലതാമസവും വ്യത്യാസപ്പെടാം ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കാലതാമസം വയർ എത്രത്തോളം നീളുന്നു എന്നതിന്റെ ഒരു പ്രവർത്തനമല്ല മറിച്ച് അയൽപക്കത്ത് സമാന്തരമായി പ്രവർത്തിക്കുന്ന മറ്റ് വയറുകൾ എന്തൊക്കെയാണ് ഒരേ പാളിയിലോ വ്യത്യസ്ത പാളികളിലോ ആയിരിക്കാം അവിടെ കപ്പാസിറ്റീവ് ഇഫക്റ്റ്ആയിരിക്കും ക്രോസ് ടോക്ക് പോലെ എന്തെങ്കിലും ഉണ്ടാകും അത് ഞങ്ങൾ പിന്നീട് ചർച്ച ചെയ്യും അതിനാൽ ഇതെല്ലാം ശരിയായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് പ്ലെയ്സ്മെന്റാണ് അപ്പോൾ ഞങ്ങൾക്ക് സമയബന്ധിതമോ സമയബന്ധിതമോ ആയ റൂട്ടിംഗ് ഉണ്ട് അതിനാൽ വീണ്ടും മെറ്റൽ കണക്ഷനുകൾ ഉപയോഗിച്ച് വ്യത്യസ്ത വലകൾ എങ്ങനെ വിന്യസിക്കാം അങ്ങനെ സിഗ്നൽ കാലതാമസം നമ്മുടെ പരിമിതികളോ ആവശ്യകതകളോ കൃത്യമായി പാലിക്കുന്നു ഈ പ്ലേസ്മെന്റിനും റൂട്ടിംഗിനും ശേഷം എന്താണ് സംഭവിക്കുന്നത് ചില കാലതാമസങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ആവശ്യകതകൾ നിറവേറ്റുന്നില്ലെന്ന് ഞങ്ങൾ കണ്ടെത്തിയേക്കാം അതിനാൽ നമുക്ക് ഫിസിക്കൽ സിന്തസിസ് എന്നതിലേക്ക് മടങ്ങേണ്ടിവരാം അതിനാൽ ഇവിടെ നമ്മൾ എന്തുചെയ്യുന്നു ഞങ്ങൾ പലതരം വിദ്യകൾ പ്രയോഗിക്കുന്നു അതിനാൽ ഇതിൽ ചിലത് ഞങ്ങൾ പിന്നീട് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യും ഒരു പ്രത്യേക വലയുടെ കാലതാമസം കുറയ്ക്കാൻ ഈ വിദ്യകൾ ഉപയോഗിക്കുന്നു അതിനാൽ വിശാലമായ സമീപനങ്ങൾ എന്തൊക്കെയാണ് മറ്റു പലതും ഉണ്ട് പ്രധാന സമീപനങ്ങൾ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഒരു ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ഒരു ഗേറ്റ് വലുതോ ചെറുതോ ആക്കാം ഇതിനെ വലുപ്പം എന്ന് വിളിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് വലുതാക്കിയാൽ കാലതാമസം കുറയും നിങ്ങൾ ചെറുതാക്കിയാൽ കാലതാമസം വർദ്ധിക്കും

അതിനാൽ നിങ്ങൾ ഒരു പാതയുടെ കാലതാമസം കുറയ്ക്കുകയോ വർദ്ധിപ്പിക്കുകയോ ചെയ്യണമോ എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് ഒരു ഗേറ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ ശരിയായി വലുപ്പമുണ്ടാകാം ഇത് ക്ലോക്ക് നെറ്റ് ഡിസൈനിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോഴുള്ള ആദ്യ സാങ്കേതികതയാണ് രണ്ടാമത്തെ കാര്യം ഒരു നീണ്ട വയർ ഉണ്ട് പ്രചരണ കാലതാമസം കൂടുതലായിരിക്കാം അതിനാൽ ഇടയ്ക്കിടെ ബഫറുകൾ ചേർക്കുന്നത് നല്ലതാണ് അതിനാൽ മൊത്തത്തിലുള്ള പ്രചാരണ കാലതാമസം കുറയ്ക്കും മൂന്നാമതായി നിർണായക പാതയിലൂടെ നമുക്ക് ഒരു സർക്യൂട്ട് പുനർ ക്രമീകരിക്കേണ്ടി വന്നേക്കാം ഇതും നമുക്ക് പിന്നീട് എങ്ങനെ ചർച്ച ചെയ്യാം എന്നാൽ സർക്യൂട്ടിന്റെ കാലതാമസം കുറയ്ക്കാൻ കഴിയുന്ന വിദ്യകളാണിത് അതിനാൽ ഈ ടൈം ക്ലോഷറിന് പിന്നിലെ പ്രധാന പ്രചോദനം എന്താണ് ഡിസൈനിന്റെ മുൻ ദിവസങ്ങളിൽ നിങ്ങൾ കണ്ടതിനാൽ ഞങ്ങൾ അത്രയും സമയത്തെക്കുറിച്ച് വിഷമിച്ചിരുന്നില്ല സർക്യൂട്ടിന്റെ പ്രവർത്തനപരമായ കൃത്യതയെക്കുറിച്ച് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധാലുക്കളായിരുന്നു സർക്യൂട്ട് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എവിടെയാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും കാലതാമസം സംഭവിച്ചു ആ കാലയളവിൽ ഞങ്ങൾ പലപ്പോഴും ഇന്റർകണക്ഷൻ കാലതാമസം അവഗണിച്ചു അതിനാൽ ഞങ്ങൾ പറയുന്നത് സിഗ്നൽ പ്രചരണ കാലതാമസമാണ് മൊത്തത്തിലുള്ള സർക്യൂട്ട് കാലതാമസത്തിനുള്ള പ്രധാന സംഭാവന ആ കാലയളവിൽ ഇന്റർകണക്ഷൻ വയറുകളുടെ കാലതാമസം ഞങ്ങൾ അവഗണിച്ചു കാരണം ഈ സെൽ പ്ലെയ്സ്മെന്റുംറൂട്ടിംഗും സർക്യൂട്ട് പ്രകടനത്തെ ബാധിച്ചില്ല കാരണം ഞങ്ങൾ സർക്യൂട്ട് പ്രകടനം വിലയിരുത്തിയപ്പോൾ ഞങ്ങൾ ഗേറ്റുകളുടെ കാലതാമസത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത് ഞങ്ങൾ സംസാരിച്ചില്ല പരസ്പര ബന്ധത്തിന്റെ കാലതാമസം അതിനാൽ വയറുകൾ ചെറുതാണോ അതോ വയറുകൾ നീളമുള്ളതാണോ എന്നത് അപ്രസക്തമാണ് ഗേറ്റ് കാലതാമസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പരസ്പരബന്ധിത കാലതാമസം നിസ്സാരമാണെന്ന് ഞങ്ങൾ അനുമാനിച്ചു 1990 കൾക്ക് ശേഷം ഉപകരണങ്ങൾ സ്കെയിൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ MOS ട്രാൻസിസ്റ്ററുകൾ ഇതിനെ ടെക്നോളജി സ്കെയിലിംഗ്എന്ന് വിളിക്കുന്നു അതിനാൽ ഇവിടെ സാഹചര്യങ്ങൾ മാറാൻ തുടങ്ങി അതിനാൽ ഇന്റർകണക്ഷൻ കാലതാമസത്തിന്റെ ആപേക്ഷിക ആഘാതം വർദ്ധിക്കാൻ തുടങ്ങി ഗേറ്റ് അല്ലെങ്കിൽ സെൽ കാലതാമസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇന്റർകണക്ഷൻ കാലതാമസം പ്രബലമാകുന്ന ഒരു സാഹചര്യം ഇന്ന് നമുക്കുണ്ട് അതിനാൽ അടുത്ത സ്ലൈഡ് ഒരു ആശയം നൽകും ഈ ആദ്യ ഡയഗ്രം വെറും 2 ഗേറ്റുകൾ നോക്കൂ 1 ഗേറ്റിന്റെ ഔട്ട്പുട്ട് മറ്റൊരു ഗേറ്റിനെ നയിക്കുന്നു അപ്പോൾ നമ്മൾ എന്താണ് വിലയിരുത്തുന്നത് ആദ്യ ഗേറ്റിന് ഞങ്ങൾ ചില ഇൻപുട്ട് പ്രയോഗിക്കുന്നുവെന്ന് വിലയിരുത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നു കുറച്ച് സമയത്തിന് ശേഷം രണ്ടാമത്തെ ഗേറ്റിന്റെ ഇൻപുട്ടിന് എത്ര സമയത്തിന് ശേഷമാണ് അനുബന്ധ മൂല്യങ്ങൾ വരുന്നത് ഈ മൊത്തം കാലതാമസം ഇപ്പോൾ 80 കളിൽ ഔട്ട്പുട്ട്പുട്ട് കാലതാമസം മൊത്തം കാലതാമസം സംഭാവന ചെയ്യുന്നവർ എന്നിവരായിരുന്നു ലോജിക് ഗേറ്റ് ഏകദേശം 85 ശതമാനം കാലതാമസം ഇവിടെ സംഭാവന ചെയ്തു ബാക്കി 15 ശതമാനം കാലതാമസം പരസ്പര ബന്ധത്തിൽ സംഭാവന ചെയ്തു 90 കളുടെ മധ്യത്തിൽ ഇന്റർകണക്ഷൻ കാലതാമസം നന്നായി ഉയർന്നു തുടങ്ങി കാരണം വയറുകൾ നേർത്തതാകുകയും ഗേറ്റുകൾ ചെറുതാകുകയും ചെയ്യുന്നു അവ വേഗത്തിലാകുന്നു അതിനാൽ ഇപ്പോൾ സംഭാവന ഇവിടെ ഏകദേശം 50 ശതമാനവും അവിടെ 50 ശതമാനവും ആയിത്തീരുന്നു അതിനാൽ ലോജിക്കിന്റെ ഔട്ട്പുട്ട് കാലതാമസത്തിന്റെ പകുതി ഇൻറർനെറ്റുകൾക്കും പകുതി ഗേറ്റ് കാലതാമസത്തിനും കാരണമാകും നിങ്ങൾ ആഴത്തിലുള്ള സബ്മിക്രോൺ ടെക്നോളജിഡൊമെയ്നിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഇന്ന് കാണുന്നു ഇവിടെ സ്ഥിതി വിപരീതമായി ഇപ്പോൾ പരസ്പരബന്ധത്തിൽ ഞങ്ങൾ ഏകദേശം 80 ശതമാനം കാലതാമസം അല്ലെങ്കിൽ അതിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നു അതേസമയം ഗേറ്റ് കാലതാമസം 20 ശതമാനം മാത്രമാണ് അതിനാൽ ഉയർന്ന പെർഫോമൻസ് സർക്യൂട്ട് ഡിസൈൻഅല്ലെങ്കിൽ ഫിസിക്കൽ ഡിസൈൻ ഇന്റർകണക്ഷന്റെ മോഡലിംഗ് പ്രോപ്പർട്ടി റൂട്ടിംഗ് ഇൻറർ കണക്ഷനുകൾഎന്നിവയിൽ ഇന്ന് നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇത് പരമപ്രധാനമായ അവകാശമാണ് അതിനാൽ ഇതാണ് ഇന്നത്തെ അവസ്ഥ ഇപ്പോൾ സജ്ജീകരണത്തിന്റെ ഒരു ദ്രുതഗതിയിലുള്ള അവലോകനം നടത്തുകയും സമയം നിലനിർത്തുകയും ചെയ്യുക കാരണം ഞങ്ങളുടെ തുടർന്നുള്ള ചർച്ചകളിൽ കാലതാമസവുമായി ബന്ധപ്പെട്ട ചില അനുമാനങ്ങൾ ഞങ്ങൾ ഉപയോഗിക്കും അതിനാൽ ക്ലോക്കിംഗിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞങ്ങൾ എന്താണ് ചർച്ച ചെയ്തത് സർക്യൂട്ട് ഘടകങ്ങളിലൂടെ പ്രചാരണ കാലതാമസം പരിഗണിക്കുമ്പോൾ സർക്യൂട്ട് ഘടകങ്ങളിലൂടെ പ്രചരണ കാലതാമസം പറയുമ്പോൾ ചില സംഭരണ ഘടകങ്ങളുണ്ടെന്ന് ഞങ്ങൾ പറയുന്നുവെന്ന് ഞങ്ങൾ അവിടെ പറഞ്ഞു എനിക്ക് ഒരു സജ്ജീകരണം ഫ്ലിപ്പ് ഫ്ലോപ്പ് രജിസ്റ്റർR1 ഉണ്ടായിരിക്കട്ടെ അതിനാൽ എനിക്ക് മറ്റൊരു സജ്ജീകരണമുണ്ട് ഫ്ലിപ്പ് ഫ്ലോപ്പ് രജിസ്റ്റർ R2 അതിനിടയിൽ സർക്യൂട്ട് സംയോജനമുണ്ട് അതിനാൽ ഈ രണ്ട് രജിസ്റ്ററുകൾക്കും ഭക്ഷണം നൽകുന്ന ഒരു ക്ലോക്ക് ഉണ്ട് അതിനാൽ ഞങ്ങൾ പറഞ്ഞത് ക്ലോക്കിന് നിശ്ചിത സമയപരിധിയുണ്ടാകും നമുക്ക് ഇങ്ങനെ പറയാം ക്ലോക്ക് വരും ഇതാണ് ക്ലോക്ക് പിരീഡ് മൂലധനം ടി എന്ന് പറയട്ടെ ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതാണ് ഈ സമയം കീ ആശ്രയിക്കുമോ തീർച്ചയായും ഇത് ഈ കോമ്പിനേഷൻ ബ്ലോക്കിന്റെ കാലതാമസത്തെ ആശ്രയിച്ചിരിക്കും നമുക്ക് അതിനെ ഡെൽറ്റ എന്ന് വിളിക്കാം അതിനാൽ ഇത് ഡെൽറ്റയെ ആശ്രയിച്ചിരിക്കും ഇതും സജ്ജീകരണ സമയത്തെ ആശ്രയിച്ചിരിക്കും ഇതും ഹോൾഡ് സമയത്തെ ആശ്രയിച്ചിരിക്കും കാരണം ഈ കോമ്പിനേഷൻ സർക്യൂട്ട് കണക്കുകൂട്ടാൻ കുറച്ച് സമയമെടുക്കും അതിനുശേഷം ഈ ഡാറ്റ ആർ 2 ന്റെ ഇൻപുട്ടിൽ ലഭ്യമാകും അതിനാൽ എനിക്ക് ക്ലോക്ക് പ്രയോഗിക്കാൻ കഴിയും എന്നാൽ സജ്ജീകരണ നിയന്ത്രണം പറയുന്നത് അടുത്ത ക്ലോക്ക് എഡ്ജ് വരുന്നതിന് മുമ്പ് അതിനാൽ ഇൻപുട്ട് സ്ഥിരതയുള്ളതായിരിക്കുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് മിനിമം സമയം നൽകണം അതിനാൽ ഈ ഡെൽറ്റ മാത്രമല്ല ഈ മൊത്തം മൂലധന ടിയിലേക്ക് ഞാൻ ഈ സജ്ജീകരണ സമയം ചേർക്കണം ഈ ഹോൾഡ് ആവശ്യകത പറയുന്നത് ക്ലോക്ക് എഡ്ജ് വന്നതിനുശേഷവും അതിനുശേഷം ഇൻപുട്ട് സ്ഥിരത കുറച്ചുകാലം നിലനിർത്തണം എന്നാണ് അതിനാൽ എന്റെ മൊത്തം ക്ലോക്ക് കാലയളവിൽ ഡെൽറ്റ മാത്രമല്ല സജ്ജീകരണവും ഹോൾഡ് സമയവും ഉൾപ്പെടുത്തണം ഈ വിധത്തിൽ എന്റെ മൊത്തം ക്ലോക്ക് പിരീഡ് ശരിയായി ഉയരും ഇതായിരുന്നു ആവശ്യം അതിനാൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ടൈമിംഗ് ഒപ്റ്റിമൈസേഷൻ ടൂളുകൾ ഈ 2 നിയന്ത്രണങ്ങൾ തൃപ്തിപ്പെടുത്തുന്നതിനായി പ്രചാരണ കാലതാമസം ക്രമീകരിക്കാൻ അവർ ശ്രമിക്കുന്നു ഇപ്പോൾ നിങ്ങൾ സെറ്റപ്പ് നിയന്ത്രണത്തെ ചിലപ്പോൾ ലോംഗ് പാത്ത് കൺസ്ട്രൈന്റ്എന്ന് വിളിക്കുന്നു വീണ്ടും ഓർമിക്കാൻ ഇത് എന്താണ് പറയുന്നത് എല്ലാ സ്റ്റോറേജ് ഘടകങ്ങളോ രജിസ്റ്ററോ സംബന്ധിച്ച് ഡാറ്റ ഇൻപുട്ട് ക്ലോക്ക് എഡ്ജിന് മുമ്പായി സ്ഥിരതയുള്ളതായിരിക്കേണ്ട സമയമാണിത് അതിനാൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ അതിനെ ഒരു നീണ്ട പാത നിയന്ത്രണം എന്ന് വിളിക്കുന്നത് നിങ്ങൾ ഇവിടെ കാണുന്നതിനാൽ ഞങ്ങൾ ഇവിടെ ബഹുമാന രേഖയോടെ പറയുന്നു ഇവിടെ കുറഞ്ഞ സമയം ഉണ്ടായിരിക്കണം അതിന് മുമ്പ് ഡാറ്റ സ്ഥിരതയുള്ളതായിരിക്കണം അതിനാൽ കോമ്പിനേഷണൽ സർക്യൂട്ടിന്റെ ഏറ്റവും മോശം കേസ് പ്രചാരണ കാലതാമസം ഉണ്ടായിരിക്കണം അതിനാലാണ് ഞാൻ അതിനെ ഏറ്റവും ദൈർഘ്യമേറിയ പാത എന്ന് വിളിക്കുന്നത് കോമ്പിനേഷണൽ സർക്യൂട്ട് ഉള്ളതിനാൽ ചില പാതകൾ ഉദാഹരണത്തിന് ചെറുതായിരിക്കാം എനിക്ക് ഇതുപോലൊരു സർക്യൂട്ട് ഉണ്ടായിരിക്കാം പറയട്ടെ എനിക്ക് ഇതുപോലൊരു സർക്യൂട്ട് ഉണ്ടെന്ന് പറയട്ടെ 2 ഔട്ട്പുട്ടുകൾ ഉണ്ട് ആദ്യ ഔട്ട്പുട്സൃഷ്ടിക്കുന്നത് ഒരു കാലതാമസത്തിന് ശേഷം മാത്രമാണ് ഒരൊറ്റ ഗേറ്റ് പക്ഷേ 3 ഗേറ്റുകളുമായി ബന്ധപ്പെട്ട കാലതാമസത്തിനുശേഷം രണ്ടാമത്തെ ഔട്ട്പുട്ട് സൃഷ്ടിക്കപ്പെടുന്നു അതിനാൽ ഇവിടെ ഞാൻ ഏറ്റവും ദൈർഘ്യമേറിയ പാത പറയുമ്പോൾ അത് രണ്ടാമത്തെ ഔട്ട്പുട്ടിന് തുല്യമായ 3 ഗേറ്റുകളുടെ കാലതാമസമായിരിക്കും അതിനാൽ ഞാൻ അത് കണക്കിലെടുക്കണം അതിനാൽ ഡെൽറ്റയുടെ പരമാവധി മൂല്യം എന്താണ് അതിനാൽ ഡെൽറ്റയുടെ മൂല്യം എന്താണ് അതിനുശേഷം ഔട്ട്പുട്ടുകൾ തീർച്ചയായും സ്ഥിരതയുള്ളതായിരിക്കും കാരണം ഒരു ഗേറ്റ് കാലതാമസത്തിന് ശേഷം ഇത് വളരെ നേരത്തെ സ്ഥിരത കൈവരിക്കും അതിനാൽ ഡെൽറ്റയിൽ ഏറ്റവും ദൈർഘ്യമേറിയ പാത ഉൾപ്പെടുത്തണം അല്ലേ അതിനാൽ ഞങ്ങൾ സജ്ജീകരണ സമയം പരിഗണിക്കുമ്പോഴെല്ലാം അതാണ് സമയ പരിമിതി എന്തുകൊണ്ടാണ് ഇത് വരുന്നത് അതിനാൽ ക്ലോക്ക് എഡ്ജിന് ശേഷം ഞങ്ങൾ ഡാറ്റ സ്ഥിരമായി നിലനിർത്തേണ്ട സമയമാണ് ഹോൾഡ് ടൈം ഇത് നിങ്ങളോട് പറയുന്നു ക്ലോക്ക് എഡ്ജിന് ശേഷവും ഞാൻ കുറച്ച് സമയത്തേക്ക് ഡാറ്റ സ്ഥിരത നിലനിർത്തണം കാരണം അതിനുമുമ്പ് ഇൻപുട്ട് ഡാറ്റ മാറുകയാണെങ്കിൽ ഒരുപക്ഷേ രണ്ടാമത്തെ രജിസ്റ്റർ മുമ്പത്തേത് പ്രതീക്ഷിച്ചേക്കാം അടുത്ത ക്ലോക്ക് സൈക്കിളിലേക്ക് പോകുന്നതിന് പകരം അതേ ക്ലോക്ക് സൈക്കിളിലെ ഡാറ്റ മാറ്റേണ്ടതുണ്ട് കാരണം രജിസ്റ്ററുകൾ ക്ലോക്ക് എഡ്ജിനോട് പ്രതികരിക്കാൻ കുറച്ച് സമയമെടുക്കും അതിനാൽ ഒരു ക്ലോക്ക് എഡ്ജ് വരുമ്പോഴെല്ലാം രജിസ്റ്റർ തൽക്ഷണം പ്രതികരിക്കില്ല ഇതിന് കുറച്ച് സമയമെടുക്കും അതിനാൽ ഇത്തവണ ഇവിടെ കുറഞ്ഞ സമയപരിധി ഉണ്ടായിരിക്കണമെന്ന് പറയപ്പെടുന്നു നിങ്ങൾ ഡാറ്റ സുസ്ഥിരമായി സൂക്ഷിക്കേണ്ട സമയമാണിത് അതിനാൽ ഈ രജിസ്റ്ററിന് ഇൻപുട്ട് ഡാറ്റ വിശ്വസ്തതയോടെ രേഖപ്പെടുത്താനും സംഭരിക്കാനും കഴിയും ശരാശരി സമയത്ത് ഇൻപുട്ട് മാറാൻ തുടങ്ങിയാൽ തെറ്റായ ഡാറ്റ ലഭിക്കാൻ സാധ്യതയുണ്ട് ഇതാണ് ഷോർട്ട് പാത്ത്നിയന്ത്രണം എന്ന് വിളിക്കുന്നത് കാരണം ഷോർട്ട് പാതകൾ ഇവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കും അതിനാൽ നിങ്ങൾ 2 കേസുകൾ ഡെൽറ്റ മാക്സ് ഡെൽറ്റ എന്നിവ പരിഗണിക്കേണ്ടതുണ്ട് മിനിറ്റ് അതിനാൽ നിങ്ങൾ സജ്ജീകരണ സമയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ ഡെൽറ്റ മാക്സ് പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ ഔട്ട്പുട്ട് സുസ്ഥിരമാകാൻ ആവശ്യമായേക്കാവുന്ന പരമാവധി പരമാവധി സമയം എന്താണ് അതിനുശേഷം നിങ്ങൾ പി സജ്ജീകരണ സമയം നൽകണം ഈ ഡെൽറ്റയുടെ ഏറ്റവും കുറഞ്ഞ സമയം മാത്രമല്ല ഒരേ ക്ലോക്ക് സൈക്കിളിൽ ഈ രജിസ്റ്റർ 2 തവണ ആയതിനാൽ എനിക്ക് ഇത്തരത്തിലുള്ള സഹിഷ്ണുത ഉണ്ടായിരിക്കണമെന്ന് ടി ഹോൾഡ് പറയുന്നു അതിനാലാണ് ഇതിനെ നീളമുള്ള പാത ഹ്രസ്വ പാത നിയന്ത്രണങ്ങൾ എന്ന് വിളിക്കുന്നത് സജ്ജീകരണങ്ങളും നിയന്ത്രണങ്ങളും അതിനാൽ ഞാൻ പറഞ്ഞതെന്തും പുതുക്കാൻ സജ്ജീകരണ നിയന്ത്രണത്തിൽ സിഗ്നൽ സംക്രമണങ്ങൾ വളരെ വൈകി സംഭവിക്കുന്നില്ലെന്നും പരിമിതികൾ മൊത്തം സൈക്കിൾ സമയം അല്ലെങ്കിൽ സമയ കാലയളവ് കോമ്പിനേഷണൽ സർക്യൂട്ട് കാലതാമസം സെറ്റപ്പ് സമയം എന്നിവയ്ക്ക് തുല്യമായിരിക്കണമെന്നും ഞങ്ങൾ ഉറപ്പുവരുത്തി തീർച്ചയായും ക്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനാൽ ടൈമിംഗ് കോൺസ്ട്രൈൻ പ്രാരംഭ ഘട്ടങ്ങൾ സാധാരണയായി സജ്ജീകരണ നിയന്ത്രണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിനാൽ ഇത് ചെയ്യുന്നത് ഒരു സർക്യൂട്ട് സജ്ജീകരണ നിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു എന്നതാണ് അതിനാൽ ഇത് ചെയ്യുന്നതിന് നമുക്ക് എന്താണ് വേണ്ടത് കോമ്പിനേഷണൽ കാലതാമസം ടി കോംബ് കാലതാമസംഞങ്ങൾ ശരിയായി കണക്കാക്കേണ്ടതുണ്ട് കാരണം ഞാൻ വഹിക്കുന്ന സെറ്റപ്പും സ്കേവും ഇതിനകം അറിയാവുന്നതാണ് അതിനാൽ ഇത് ഞങ്ങൾ നടപ്പിലാക്കേണ്ട ഒരു പ്രക്രിയയാണ് അതിനാൽ കോമ്പിനേഷണൽ സർക്യൂട്ടിൽ വ്യാപിക്കാൻ സിഗ്നൽ സംക്രമണങ്ങൾക്ക് എത്ര സമയമെടുക്കും അതായത് 1 സംഭരണ ഘടകത്തിൽ നിന്ന് അടുത്തതിലേക്ക് അതിനാൽ രജിസ്റ്റർ ചെയ്തവർ ഘട്ടം ഘട്ടമായി സ്ഥാപിച്ചിരിക്കുന്നു അതിനിടയിൽ കോമ്പിനേഷണൽ സർക്യൂട്ടുകൾ ഉണ്ട് ഒരു കോമ്പിനേഷണൽ സർക്യൂട്ടിന്റെ കാലതാമസം എന്നതിന്റെ ഒരു ഏകദേശ കണക്ക് നമുക്ക് ഒരു നല്ല എസ്റ്റിമേറ്റ് ഉണ്ടായിരിക്കണം അതിനാൽ ഒരു സംഭരണ മൂലകത്തിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് അടുത്ത സംഭരണ ഘടകത്തിന്റെ ഇൻപുട്ടിലേക്ക് എത്താൻ ഒരു സിഗ്നൽ ട്രാൻസിഷനായി നിങ്ങൾക്ക് എത്ര സമയമെടുക്കും ഈ പ്രക്രിയ സ്റ്റാറ്റിക് ടൈമിംഗ് അനാലിസിസ്എന്ന് വിളിക്കപ്പെടുന്ന സാങ്കേതികതയിലൂടെയാണ് നടത്തുന്നത് അതിനാൽ ഞങ്ങൾ ഇത് കൂടുതൽ വിശദമായി പിന്നീട് ചർച്ച ചെയ്യും അതിനാൽ സ്റ്റാറ്റിക് ടൈമിംഗ് വിശകലനം അടിസ്ഥാനപരമായി ഇത് 2 കാര്യങ്ങൾ ചെയ്യുന്നു ഇത് ഒരു ഗേറ്റുകളുടെയോ ട്രാൻസിസ്റ്ററുകളുടെയോ ഒരു നെറ്റ്ലിസ്റ്റിൽ ആരംഭിക്കുന്നു അതിനാൽ തന്നിരിക്കുന്ന സർക്യൂട്ട് നെറ്റ്ലിസ്റ്റ് അത് സിഗ്നലുകളുടെ യഥാർത്ഥ വരവ് സമയങ്ങളും ആവശ്യമായ എത്തിച്ചേരൽ സമയങ്ങളും കണക്കാക്കാൻ ശ്രമിക്കുന്നു ഞങ്ങൾ ഇതിനെക്കുറിച്ച് പിന്നീട് വിശദമായി സംസാരിക്കും ഔട്ട്പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ എത്തിച്ചേരൽ സമയം ഉപയോക്താവ് നൽകിയേക്കാം അതിനാൽ ഓരോ ടെർമിനലിനും ഓരോ ഗേറ്റിനും ഞങ്ങൾ അവ കണക്കാക്കേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇത് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് RAT ഉം AAT ഉം തമ്മിലുള്ള വ്യത്യാസം എന്തോ കോൾ സ്ലാക്ക്തിരിച്ചറിയാൻ കഴിയും അത് സമയ ലംഘനങ്ങൾ തിരിച്ചറിയാൻ കഴിയും ചില സെല്ലുകൾക്ക് യഥാർത്ഥ എത്തിച്ചേരൽ സമയം ആവശ്യമായ വരവ് സമയത്തേക്കാൾ വലുതായിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ കണ്ടെത്തിയേക്കാം അതിനാൽ അവിടെ സമയ ലംഘനം ഉണ്ട് അതിനാൽ ചില സമയങ്ങളിൽ നിങ്ങൾ ചില സമയങ്ങളിൽ ക്രമീകരിക്കേണ്ടി വന്നേക്കാം അങ്ങനെ ആ സമയ ലംഘനങ്ങൾ ശരിയായി പരിഹരിക്കപ്പെടും അതിനാൽ ഇത് ആദ്യത്തെ സ്റ്റാറ്റിക് ടൈമിംഗ് വിശകലനം കാണും സാധാരണയായി ഞങ്ങൾ സിഗ്നൽ പരിവർത്തനങ്ങൾ കാലതാമസം ഏറ്റവും മോശം അവസ്ഥ മൂല്യങ്ങളായി മാതൃകയാക്കുന്നു കൂടാതെ തെറ്റായ പാതകൾ എന്ന് വിളിക്കപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെന്നും ഞങ്ങൾ കാണും തെറ്റായ വഴികൾ ഇതുപോലെയാണ് എനിക്ക് ഒരു കോമ്പിനേഷൻ സർക്യൂട്ട് ഉണ്ടെന്ന് നിങ്ങൾ കാണുന്നു അതിനാൽ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ക്ലോക്ക് പിരീഡ് അല്ലെങ്കിൽ പരമാവധി ക്ലോക്ക് ഫ്രീക്വൻസി കണക്കാക്കാൻ ഞാൻ ഏറ്റവും മോശം കേസ് കാലതാമസം കണക്കാക്കേണ്ടിവരുമെന്ന് ഞാൻ പറയുന്നു ഇത് സാധാരണ സ്റ്റാറ്റിക് ടൈമിംഗ് വിശകലനം ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ പറയുന്നത് കോമ്പിനേഷണൽ സർക്യൂട്ടിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാത എന്നത് ഏറ്റവും ദൈർഘ്യമേറിയ കാലതാമസത്തെ അർത്ഥമാക്കുന്നില്ല കാരണം പാത ഉണ്ടായിരിക്കാം പക്ഷേ ആ പാതയിലൂടെ ഒരു സിഗ്നലും പിന്തുടരാതിരിക്കാൻ സർക്യൂട്ട് ആയിരിക്കാം നമുക്ക് വീണ്ടും ചില ഉദാഹരണങ്ങൾ കാണാം പിന്നീട് ഈ പാതകളെ തെറ്റായ പാതകൾ എന്ന് വിളിക്കുന്നു ജ്യാമിതീയമായി ഒരു പാത ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന പാതയുണ്ട് എന്നാൽ സിഗ്നൽ മൂല്യവുമായി ബന്ധപ്പെട്ട് ഗേറ്റ്സ് പ്രവർത്തിക്കുന്നത് ആ നീണ്ട പാതകളിലൂടെ സിഗ്നൽ ഒരിക്കലും പ്രചരിപ്പിക്കാത്ത വിധത്തിലാണ് അതിനാൽ നിങ്ങൾക്ക് തെറ്റായ വഴികൾ ഒരു പ്രിയോറിതിരിച്ചറിയാനും അവ പരിഗണനയിൽ നിന്ന് നീക്കം ചെയ്യാനും കഴിയുമെങ്കിൽ നിങ്ങളുടെ വിശകലനം വളരെ വേഗത്തിലാകും ഇത് ഒരു പ്രധാന പോയിന്റാണ് അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ആവശ്യമായ വരവ് സമയവും യഥാർത്ഥ എത്തിച്ചേരൽ സമയവും ഞങ്ങൾ കണക്കുകൂട്ടിയാൽ സർക്യൂട്ടിലെ ഓരോ പോയിന്റിനും x ഇത് ഒരു ഗേറ്റിലേക്കുള്ള ഇൻപുട്ട് ഒരു ഗേറ്റിന്റെ ഔട്ട്പുട്ട് ചില പിൻസ് എന്നിവ നിങ്ങൾക്ക് ഈ സ്ലാക്ക് കണക്കാക്കാം അതിനാൽ ഒരു പോസിറ്റീവ് സ്ലാക്ക് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ആവശ്യമുള്ള വരവ് സമയം യഥാർത്ഥ വരവിന്റെ യഥാർത്ഥ സമയത്തേക്കാൾ കൂടുതലാണ് എന്നാണ് അതായത് സമയ ലംഘനം അവിടെ ഇല്ല എന്നാണ് എന്നാൽ RAT ചെറുതാണെങ്കിൽ ഇതിനർത്ഥം ഇത് നെഗറ്റീവ് ആണ് അതായത് സമയ ലംഘനം ഉണ്ടെന്നാണ് ഇപ്പോൾ സമയ ലംഘനം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫിസിക്കൽ സിന്തസിസ്പുനർ സംഘടനയിലേക്ക് പോകേണ്ടതുണ്ട് അവിടെ ഞങ്ങൾ നെറ്റ്ലിസ്റ്റ് പരിഷ്ക്കരിക്കും അങ്ങനെ യഥാർത്ഥ വരവ് സമയം കുറയ്ക്കാൻ കഴിയും അങ്ങനെ ഈ സ്ലാക്ക് മൂല്യം വീണ്ടും 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആക്കാം ഇപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയുന്ന ചില വഴികളുണ്ട് അവയിൽ ചിലത് ഞാൻ വിശദീകരിക്കുന്നു സിഗ്നലുകൾ വേഗത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി നിർണായക പാതയിൽ കിടക്കുന്ന ഗേറ്റുകൾ ഉയർത്താം എന്നതാണ് ഇവിടെ പരിപാലിക്കുന്ന ആദ്യത്തെ സാങ്കേതികത അതിനാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതുപോലുള്ള ഒന്നാണ് ഇവിടെ ഗേറ്റ് ഉണ്ടെന്ന് പറയട്ടെ ഒരു ഇൻവെർട്ടർ പറയുക ഇവിടെ മറ്റൊരു ഗേറ്റ് ഉണ്ട് ഇത് പ്രശ്നം സൃഷ്ടിക്കുന്ന പാതയാണെന്ന് കരുതുക അതിന് സ്ലാക്ക് മൂല്യം നെഗറ്റീവ് ശരിയാണ് അതിനാൽ ഈ പാതയുടെ കാലതാമസം കുറയ്ക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അതിനാൽ നമുക്ക് ഇത് എങ്ങനെ ചെയ്യാം നമുക്ക് നോക്കാം നിങ്ങൾ ഒരു ഇൻവെർട്ടറിന്റെ CMOS ലെവൽ സാക്ഷാത്കാരം നോക്കുകയാണെങ്കിൽ ഇത് ഒരു P ടൈപ്പ് ആണ് PMOS ട്രാൻസിസ്റ്റർ ഇത് ഒരു NMOS ആണ് അതിനാൽ ഇൻപുട്ട് ഇവിടെ വരുന്നു ഔട്ട്പുട് ഇവിടെ നിന്ന് പോകുന്നു അതുപോലെ നിങ്ങൾക്ക് സമാനമായ മറ്റൊന്ന് ഉണ്ട് അതിനാൽ നിങ്ങളുടെ സർക്യൂട്ട് ഇതുപോലെയാണ് ഇത് മറ്റേതെങ്കിലും ഗേറ്റ് വലത്തേക്ക് നയിക്കുന്നു മറ്റേതെങ്കിലും ഗേറ്റ് അത് ഓടിക്കുന്നു അതിനാൽ ഇത് മറ്റെന്തെങ്കിലും ഓടിക്കും അതിനാൽ ഞങ്ങൾ ഇത് മാതൃകയാക്കുന്ന രീതി ഇവ പരസ്പരബന്ധിത രേഖയാണെന്ന് നിങ്ങൾ കാണുന്നു ഇവിടെ ചില സമാന്തര രേഖകൾ ഉണ്ടാകും കപ്പാസിറ്റൻസുകൾ ഉണ്ടാകും ഗേറ്റ് കപ്പാസിറ്റൻസും ഉണ്ടാകും കാരണം ഇത് ആത്യന്തികമായി ഗേറ്റ് ഓടിക്കുന്നു അതിനാൽ നിങ്ങൾ MOS ട്രാൻസിസ്റ്ററിന്റെ ഗേറ്റിനെക്കുറിച്ചാണെങ്കിൽ ഒരു സമാന്തര പ്ലേറ്റ് കപ്പാസിറ്റർ മുകളിൽ ഗേറ്റ് അടിവശം അടിവശം എന്നിവ പോലെ കാണപ്പെടുന്നു അതിനാൽ നിങ്ങൾക്ക് മാതൃകയാക്കാനാകുന്നത് ഇതാണ് ഇത് ഒരു കപ്പാസിറ്റർ ഒരു കപ്പാസിറ്റീവ് ലോഡുകൾ ഓടിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഈ ഇഷ്ടം മറ്റേതെങ്കിലും ഗേറ്റ് ഓടിക്കുന്നുവെന്ന് പറയുമ്പോൾ ഇവിടെയും കുറച്ച് ശേഷി ഉണ്ടാകും നമുക്ക് അതിനെ C1 എന്ന് വിളിക്കാം അതിനാൽ ഒരു ഗേറ്റിന്റെ ഔട്ട്പുട്ടിൽ സിഗ്നൽ 0 മുതൽ 1 വരെ പോകുന്നുവെന്ന് ഞാൻ പറയുമ്പോൾ ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പറയട്ടെ ഇതിനർത്ഥം കപ്പാസിറ്റർ ഈ പാതയിലൂടെ 0 മുതൽ ഉയർന്ന വോൾട്ടേജ് വരെ ചാർജ് ചെയ്യുന്നു എന്നാണ് അതിനാൽ ഈ പി ടൈപ്പ് ട്രാൻസിസ്റ്റർ ചിത്രത്തിലേക്ക് വരുന്നു അതുപോലെ തന്നെ ഈ ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 മുതൽ 0 വരെ പോകുന്നുവെന്ന് ഞാൻ പറയുമ്പോൾ ഇതിനർത്ഥം കപ്പാസിറ്റർ ഇതിനകം ചാർജ് അവസ്ഥയിലായിരുന്നു ഇത് ഇതിലൂടെ ഡിസ്ചാർജ് ചെയ്യുന്നു പാത അതിനാൽ ഇപ്പോൾ ഈ ഡിസ്ചാർജിംഗ് പാത ഇതുപോലെയായിരിക്കും അതിനാൽ പിഎംഒഎസ്ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ എൻഎംഒഎസ് ട്രാൻസിസ്റ്റർനടത്തുന്നു അതിനാൽ വാദത്തിനായി ഞാൻ ഊ ഹിക്കുകയാണെങ്കിൽ ഈ 2 ട്രാൻസിസ്റ്ററുകളുടെ കണ്ടൻസിങ്അവസ്ഥയിൽ തുല്യമാകുമ്പോൾ അവയുടെ പ്രതിരോധം അതിനാൽ ചാർജ് ഡിസ്ചാർജിംഗ് കാലതാമസം ആർസി ഉൽപ്പന്നമായിരിക്കും അത് ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഒരു ട്രാൻസിസ്റ്റർ ഉയർത്തുന്നു എന്നാണ് ഉയർത്തുക എന്നതിനർത്ഥം എന്റെ ചാനൽ അല്ലെങ്കിൽ ചാനലിന് മുകളിലായിരുന്ന ഗേറ്റ് നേരത്തെ പറയട്ടെ ഇത് 1 ടെർമിനൽ ഇത് 1 ടെർമിനൽ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ അത് 2 മടങ്ങ് കൂടുതൽ വിശാലമാക്കുന്നു അതിനാൽ ഞാൻ ഇത് വിശാലമാക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ഇതിന്റെ പ്രതിരോധം R ആയിരുന്നെങ്കിൽ ഈ പ്രതിരോധം R കൊണ്ട് 2 ആകും അതിനാൽ ഞാൻ ട്രാൻസിസ്റ്റർ അളക്കുകയാണെങ്കിൽ അവയെ വലുതാക്കുക നമുക്ക് R 2 R 2 എന്നിങ്ങനെ പറയാം അപ്പോൾ എന്റെ കാലതാമസം RC ആയിത്തീരും 2 അതുപോലെ തന്നെ എനിക്ക് കാലതാമസം വർദ്ധിപ്പിക്കണമെങ്കിൽ എനിക്ക് അതിനെ ഇടുങ്ങിയതാക്കാൻ കഴിയും എനിക്ക് അത് 2R ആക്കാം അതിനാൽ ട്രാൻസിസ്റ്റർ സ്കെയിൽ ചെയ്യുന്നതിലൂടെ വയറുകളുടെ വ്യത്യസ്ത ഭാഗങ്ങളുടെ കാലതാമസം നിയന്ത്രിക്കുന്നതിനുള്ള ഒരു മികച്ച മാർഗ്ഗം നമുക്ക് നേടാനാകും ആദ്യ പോയിന്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് നിർണായക പാതകളിൽ കിടക്കുന്ന ഗേറ്റുകൾ സിഗ്നൽ വേഗത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി ഉയർത്താൻ കഴിയും ഘടികാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ സംസാരിച്ച രണ്ടാമത്തെ പോയിന്റ് ഞാൻ ഒരിക്കൽ കൂടി നോക്കട്ടെ ബഫറുകൾ നീണ്ട ഗുരുതരമായ വയറുകളിൽ തിരുകാം നീളം n ന്റെ ഒരു നീണ്ട വയർ ഉണ്ടെന്ന് പറയട്ടെ എൽമോർ കാലതാമസ മാതൃകയെ സംബന്ധിച്ചിടത്തോളം വിതരണം ചെയ്യുന്ന പ്രതിരോധങ്ങളും ശേഷികളും ഞങ്ങൾ പരിഗണിക്കുകയാണെങ്കിൽ കാലതാമസം നീളത്തിന്റെ ചതുരത്തിന് നിർദ്ദേശിക്കപ്പെടും അതിനാൽ ഇത് ചില സ്ഥിരം പറയലുകൾക്ക് തുല്യമാണെന്ന് പറയട്ടെ അതിനാൽ ഞങ്ങൾ പറയുന്നത് സർക്യൂട്ട് വേഗത്തിലാക്കാൻ ഇതാണ് ഹോൾഡ് ലൈൻഎന്ന നിർദ്ദേശം ഇപ്പോൾ നിങ്ങൾ അതിനിടയിൽ ചില ബഫറുകൾ ഇടുക അതിനാൽ അതിനെ ചില ഭാഗങ്ങളായി വിഭജിക്കുക 1 2 മുതൽ m വരെ m സെഗ്മെന്റുകൾ ഉണ്ടെന്ന് നമുക്ക് പറയാം ഇപ്പോൾ ഓരോ വിഭാഗത്തിന്റെയും കാലതാമസം എത്രയാകും മൊത്തം നീളം n ആയിരുന്നു അതിനാൽ ഓരോ വിഭാഗത്തിന്റെയും വീതി ആയിരിക്കും കാരണം ഞാൻ ഉണ്ടാക്കിയ അത്തരം കഷണങ്ങൾ ഉണ്ട് അതിനാൽ ഓരോ സെഗ്മെന്റുകളുടെയും കാലതാമസം ഉണ്ടാകും m അത്തരം സെഗ്മെന്റുകൾ m കൊണ്ട് ഗുണിച്ചാൽ ഇവിടെ കാലതാമസം ഉണ്ടാകും അതിനാൽ നിങ്ങൾ ഒരു ചെറിയ കണക്കുകൂട്ടൽ നടത്തുകയാണെങ്കിൽ ഇത് മാറുന്നു അതിനാൽ ഏകദേശം കാലതാമസം m സമയത്തിന്റെ അവകാശം കുറയ്ക്കുന്നു അതിനാൽ ഈ കാലതാമസം കുറയ്ക്കുന്നതിനുള്ള ഒരു നല്ല മാർഗ്ഗമായി നിങ്ങൾ അവയ്ക്കിടയിൽ ബഫറുകൾ തിരുകുകയാണെങ്കിൽ ഞങ്ങൾ നൽകുന്ന വില ബഫറുകളുടെ ചില അധിക മേഖലയാണ് ഇത് തീർച്ചയായും നിങ്ങൾ നിർമ്മിക്കുന്ന ഞങ്ങളുടെ ഡിസൈൻ ട്രേഡ് ട്രേഡ് ചെയ്യുക നിങ്ങൾ ഈ സർക്യൂട്ട് വേഗത്തിലാക്കാൻ ഹാർഡ്വെയർ അൽപ്പം നിക്ഷേപിക്കുക മൂന്നാമതായി നെറ്റ്ലിസ്റ്റ് ട്രീമൊത്തത്തിലുള്ള ആഴം കുറയ്ക്കുന്നതിന് നിങ്ങൾക്ക് പുനർനിർമ്മിക്കാൻ കഴിയും ഇത് വളരെ ലളിതമാണ് ഞാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം നൽകുന്നു നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരു നെറ്റ്ലിസ്റ്റ് ഉണ്ടെന്ന് കരുതുക ഒരു 4 ഇൻപുട്ട് AND ഫംഗ്ഷൻ ഇൻപുട്ടുകൾ A B C D ആണെങ്കിൽ ഔട്ട്പുട്ട് ഉത്പാദിപ്പിക്കുന്നത് ABCD ആണെന്ന് പറയുക അതിനാൽ നിങ്ങൾക്ക് ഇത് അടിസ്ഥാനപരമായി ഇതുപോലെ പുനർ ക്രമീകരിക്കാൻ കഴിയും ഇവ 2 പ്രവർത്തനപരമായി തുല്യമാണ് അതിനാൽ ഇവിടെ കാലതാമസം 3 ആയിരുന്നു ഇപ്പോൾ കാലതാമസം 2 ആയിരുന്നു ഗേറ്റുകളുടെ 2 ലെവലുകൾ അതിനാൽ നെറ്റ്ലിസ്റ്റിന്റെ ഇത്തരത്തിലുള്ള പുനർ സംഘടനയും ഒരു സർക്യൂട്ടിന്റെ കാലതാമസം കുറയ്ക്കുന്നതിനുള്ള വളരെ ലളിതമായ മാർഗമാണ് ഇപ്പോൾ ഞങ്ങൾ പിന്നീട് മറ്റ് രീതിയും കാണും അതിനാൽ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യുന്ന സർക്യൂട്ടിന്റെ കാലതാമസം എങ്ങനെ വർദ്ധിപ്പിക്കാം ഹോൾഡ് സമയ പരിമിതികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രശ്നം സൃഷ്ടിക്കുന്ന ആദ്യകാല സിഗ്നൽ പരിവർത്തനങ്ങളാണെന്ന് ഞാൻ പരാമർശിക്കുന്നു അതിനാൽ സമയ പരിമിതികൾ നിലനിർത്തുന്നതിന് ഞങ്ങൾ നേരത്തെ ചർച്ച ചെയ്തതാണ് അതായത് അനുവദനീയമായ പരിധിക്കുള്ളിൽ നിങ്ങൾ അനുവദനീയമായ പരിധിക്കുള്ളിലാണ് നിങ്ങളുടെ കോമ്പിനേഷണൽ സർക്യൂട്ട് കാലതാമസം എല്ലായ്പ്പോഴും തുല്യമായതിനേക്കാൾ കൂടുതലാണെന്ന് ഉറപ്പുവരുത്തണം ഈ കോമ്പിനേഷൻ കാലതാമസം ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് പരമാവധി അല്ല ഒരുപക്ഷേ ഇത് തുല്യത്തേക്കാൾ വലുതാണ് അതിനാൽ സാധ്യമായ ഏറ്റവും കുറഞ്ഞ കാലതാമസം ഇത് ഉറപ്പാക്കേണ്ട സമയത്തേക്കാൾ കൂടുതലായിരിക്കണം അതിനാൽ ഈ പ്രഭാഷണത്തിന്റെ അവസാനത്തോടെ ഞങ്ങൾ അടുത്ത പ്രഭാഷണത്തിൽ ചർച്ച തുടരും